എല്ലിന്റെ കോഴ്സ് ആയ എൻഹാൻസിംഗ് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി എന്ന കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഐ ഐ ടി കാൺപൂരിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിലെ അധ്യാപകൻ രവിചന്ദ്രൻ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ എട്ട് ആഴ്ചകൾ ആയി ഈ കോഴ്സ് നൽകുന്നു ഇത് അവസാനത്തെ ആഴ്ചയിലെ അവസാനത്തെ യൂണിറ്റിലെ അവസാനത്തെലെസ്സൻ ആണ് ലെസ്സൻ നമ്പർ 40 ഞാൻ ഈ കോഴ്സ് നമ്മുടെ പ്രകൃതിയെ എങ്ങനെ നന്നായി സൂക്ഷിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്തിനാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്നും എന്താണ് നമുക്ക് അതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്നും നോക്കുന്നതിനു മുൻപ് കഴിഞ്ഞ പാഠത്തിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഒന്നു നോക്കാം അവസാനത്തെ പാഠത്തിൽ നിങ്ങൾക്കെങ്ങനെ ഓർമ ശക്തി കൂട്ടാമെന്നും ആൾക്കാരുടെ പേരും മുഖവും എങ്ങനെ ഓർത്തു വയ്ക്കാമെന്നും മനസ്സിലാക്കി പേരുകളും മുഖവും ഓർത്തിരിക്കുക എന്നത് വളരെ നല്ല ഒരു ഗുണമാണ് ആൾക്കാരിൽ ഉറക്കമില്ലായ്മയും പോഷകാഹാരക്കുറവും കാരണം ഓർമ്മശക്തി കുറയുന്നത് സാധാരണമാണ് ഒരു പേര് ഓർത്തിരിക്കുന്നതിന് നിങ്ങൾ ആദ്യം അത് കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു കേൾക്കണം എന്നതാണ് മനസ്സിലായില്ലെങ്കിൽ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർഥവും എല്ലാം ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് അത് മൂന്ന് തവണയെങ്കിലും ഉപയോഗിച്ചു നോക്കുക ആ ദിവസം തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു പാർട്ടിയിലോ മറ്റോ ആണെങ്കിൽ മൂന്നു സമയങ്ങളിൽ അവരുടെ പേരെടുത്ത് വിളിച്ചു കൊണ്ട് നിങ്ങള്ക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ അത് മറക്കില്ല പേരുകളെയും ആളുകളെയും ഓർക്കുന്നതിനു മറ്റൊരു നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അവരുടെ പേര് അവരുടെ മുഖവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് അത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് പേരിന്റെ അർത്ഥം വച്ചുകൊണ്ട് ഒരാളുമായി ബന്ധിപ്പിക്കാം ഇത് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് പേരിനു സ്വന്തമായി ഒരു അർത്ഥം ഉണ്ടാകുമ്പോഴാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പേര് മുഖത്ത് ചേർത്തു വക്കുന്നതാണ് ഉദാഹരണത്തിന് ചാന്ദിനി എന്ന പേര് ചന്ദ്രനുമായി വളരെ പെട്ടെന്ന് ബന്ധിപ്പിക്കാൻ കഴിയും പക്ഷേ സ്റ്റേപ്പിൾ ടൺ എന്ന പേര് സൂചിപ്പിക്കുന്ന ഒരു ചിത്രം പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇതിനെ പല ഭാഗങ്ങളായി വിഭജിക്കാം അപ്പോൾ നമുക്ക് സ്റ്റേപ്പിൾ എന്നും ടൺ എന്നും കിട്ടുന്നു നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്നത് ധാരാളം സ്റ്റേപ്പിളുകൾ ഒരു ടണ്ണിന് മുകളിൽ ഭാരം ഉള്ളവയാണ് എന്നാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരാളുടെ മുഖവുമായി പേരിനെ ബന്ധിപ്പിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഒരു ചിത്രം വച്ചു കൊണ്ടോ പേരിന്റെ ഏതെങ്കിലും പ്രത്യേകതകൾ വച്ചു കൊണ്ടോ ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് സൂര്യ എന്ന പേര് സൂര്യനോട് ചേർത്തു വയ്ക്കാം സൂര്യന്റെ നിറം സ്വർണ്ണനിറം ആണ് അപ്പോൾ നിങ്ങൾക്ക് സൂര്യ ഒരു സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട വെച്ചിരിക്കുന്നതായി സങ്കൽപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട ഓർക്കുമ്പോൾ സൂര്യയും ഓർക്കാൻ സാധിക്കുന്നു നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് ചില സാധനങ്ങളുടെ സഹായം തേടാവുന്നതാണ് ഉദാഹരണത്തിന് നോട്ടീസ് ബോർഡ് ലിസ്റ്റുകൾ മൊബൈൽ ആപ്ലിക്കേഷൻ മുതലായവ നിങ്ങൾക്ക് ഓർമ വരുന്ന മുറയ്ക്ക് എഴുതി വെക്കുകയും അത് പൂർത്തിയായതിനുശേഷം മായ്ച്ചുകളയുകയും ചെയ്യാം ഈ ലിസ്റ്റ് നിങ്ങളുടെ കൂടെ തന്നെ കൊണ്ടു നടക്കാവുന്നതാണ് നിങ്ങളുടെ പോക്കറ്റിലോ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ സ്യൂട്ട്കേസിലോ കാരണം നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഉറപ്പ് വരുത്താവുന്നതാണ് പലപ്പോഴും ഓർമശക്തി കൂടുതലാണെന്ന ചിന്തയിൽ പല സാധനങ്ങളും ലിസ്റ്റിൽ ഇല്ലാതെ വാങ്ങാൻ പോയി മറക്കുന്നത് ഒഴിവാക്കാൻ ഇത് നന്നായിരിക്കും സാധാരണഗതിയിൽ വളരെ നല്ല ഓർമശക്തി ഉള്ള പല വ്യക്തികളും ചെറിയ പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ മറന്നു പോകാതിരിക്കാൻ എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അതുകൂടാതെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ചില കളികളും ചില പ്രത്യേക കാര്യങ്ങളും ചെയ്തു കൊണ്ട് നിങ്ങളുടെ ഓർമ ശക്തി കൂട്ടാൻ പരിശീലിക്കാവുന്നതാണ് എന്ന് ഉദാഹരണത്തിന് പസിലിനു ഉത്തരം കണ്ടെത്തുകയോ പുതിയ ഭാഷ പഠിക്കുകയോ ഒക്കെ ചെയ്തു കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ വളരെ കാര്യക്ഷമമാക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിനെയും ഓർമശക്തിയെയും കൃത്യമായി സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നന്നായി നിയന്ത്രിച്ചുകൊണ്ട് അതിനെ കൂടുതൽ മികച്ചതാക്കാൻ ഇത് സഹായിക്കുന്നു നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ജോലിയിലും വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കോഴ്സിന്റെ അവസാനഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടിനെ എങ്ങനെ സുരക്ഷിതമായി നിലനിർത്താം എന്നതിനെ കുറിച്ച് ചിന്തിക്കാം അതിനായി ആദ്യം നമ്മുക്ക് ഒരു മനുഷ്യനിൽ നിന്നും പ്രകൃതി എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാം എന്നാണ് നമ്മുടെ ചുറ്റുപാട് ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായതോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായതോ ആയ നമ്മുക്കു ചുറ്റുമുള്ള പ്രകൃതിയെ ആണ് ചുറ്റുപാട് എന്ന് പറയുന്നത് ഇത് നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഭൂമിയിലുള്ള പ്രകൃതിദത്തമായ ജീവനുള്ളവയുടെ വാസസ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് മനുഷ്യരുടെ മാത്രമല്ല പ്രകൃതിദത്തമായ ജീവനുള്ളവയെ എല്ലാം കൂടി ചേർത്തു കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ആഗോള വാസവ്യവസ്ഥ പക്ഷേ മനുഷ്യർക്ക് ഒരു സ്വാർത്ഥത ഉള്ളതിനാൽ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ കൈക്കലാക്കി വയ്ക്കുന്നു അവർക്കുമുന്നിൽ ഉള്ളവയെല്ലാം അവർക്ക് പിടിച്ചടക്കാൻ കഴിയുന്നവയാണെങ്കിൽ എല്ലാത്തിനെയും പിടിച്ചു വയ്ക്കുന്നു ഉദാഹരണത്തിന് ഒരു ട്രക്ക് ഡ്രൈവർ ചിന്തിക്കുന്നത് അയാൾക്ക് മുന്നിലുള്ള 20 അടി അയാളുടെ സ്വന്തം സ്ഥലം ആണ് എന്നാണ് അയാളുടെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അയാളെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്തു മുന്നിലെത്തിയാൽ അയാൾ വളരെ അസ്വസ്ഥനാകുന്നത് അയാൾ മറ്റൊന്ന് ചിന്തിക്കുന്നത് ആരെങ്കിലും അയാളുടെ അനുവാദം ഇല്ലാതെ ക്രോസ്സ് ചെയ്താൽ അവരെ ഇടിച്ചിടാനുള്ള അധികാരമുണ്ടെന്നും ആണ് ഇങ്ങനെയുള്ള അധികാരം ഉണ്ടെന്നുമാണ് ഇങ്ങനെയുള്ള അധികാര പരമായ ചിന്ത അയാളുടെ മനസ്സിലേക്ക് വരുന്നത് മനുഷ്യന്റെ സ്വാർത്ഥമായ ചിന്തകളിലൂടെ ആണ് ഒരു ട്രക്ക് ഡ്രൈവറെ പോലെ സാധാരണ ജനങ്ങളും ചിന്തിക്കാറുണ്ട് അതായത് നമ്മൾ ഇടപഴകുന്ന ചുറ്റുപാടുകൾ നമ്മൾ ഉപയോഗിക്കുന്നവ അത് നമുക്ക് മാത്രം സന്തോഷിക്കാനുള്ളതാണെന്നാണ് അവർക്ക് അത് നശിപ്പിക്കാനും അവിടെയുള്ളതൊക്കെ ഉപയോഗിച്ച് തീർക്കാനും അധികാരമുണ്ടെന്നാണ് അതായത് അവിടെയുള്ള ആഹാരസാധനങ്ങൾ ഉൾപ്പെടെ പക്ഷേ അവിടെ മൃഗങ്ങളും പക്ഷികളും ഒക്കെയുണ്ട് പക്ഷേ മനുഷ്യർ ചിന്തിക്കുന്നത് ഇതെല്ലാം അവനു മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്നാണ് ഇപ്പോൾ മനുഷ്യർ എന്താണ് ചെയ്തത് ആഗോള വാസ വ്യവസ്ഥയെ നശിപ്പിച്ചു കൊണ്ട് അവരുടെ വാസസ്ഥലത്തിന്റെ വ്യാപ്തി കൂട്ടി നഗരവൽക്കരണത്തിലൂടെയും ആധുനിക വൽക്കരണത്തിലൂടെയും പ്രകൃതിദത്തമായ പലതും നഷ്ടപ്പെടുത്തി കാടുകൾ വെട്ടി നശിപ്പിച്ചു കൊണ്ടും പല പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസവ്യവസ്ഥ നശിപ്പിച്ചുകൊണ്ടും മനുഷ്യർ ഡാമുകളും റോഡുകളും ഉണ്ടാക്കി പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ചുറ്റുപാടുകളെ കുറിച്ചുള്ള വാദം ശ്രദ്ധിക്കാം നമ്മൾ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിച്ചപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നു ഒരു കൃത്രിമമായ ജീവിത രീതിയിലേക്ക് മാറി കൃത്രിമ ജീവിതത്തിൽ എല്ലാം മിഥ്യയാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ കരുതുന്നത് എല്ലാം സത്യം ആണ് എന്നാണ് അതിനാൽ തന്നെ നമ്മൾ ഈ മിഥ്യയിൽ നമ്മുടെ ജീവിതം മുന്നോട്ടു കൊണ്ടു പോകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ അത്യാവശ്യ ഘടകങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് അത് തികച്ചും ഫ്രീ ആണ് നമ്മൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്കു കൃത്രിമമായ കാര്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യ സാധനങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്നത് അവയൊക്കെ പ്രകൃതിയിൽ നിന്നും വളരെ ഫ്രീയായി കിട്ടും എന്നതാണ് പ്രകൃതി നമുക്ക് ജീവിക്കാനുള്ള ഇടം നൽകിയിട്ടുണ്ട് തുടക്കത്തിൽ ഇത് ഫ്രീ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവയൊക്കെ പൈസ കൊടുത്തു വാങ്ങുകയാണ് അതിനുശേഷമാണ് അത് ഉപയോഗിക്കാനുള്ള അധികാരം നേടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നമുക്ക് പ്രകൃതി തന്നെ തന്ന ഒരു കാര്യമാണ് നമ്മൾ ജീവിക്കുന്നത്തിനായി ശ്വസിക്കുന്ന വായു വെള്ളം അതുപോലെ സൂര്യനിൽ നിന്നും നമ്മുടെ ആഹാരത്തിൽ നിന്നും കിട്ടുന്ന ഊർജം അഥവാ എനർജി എന്നിവയൊക്കെ ഇവയൊക്കെ പ്രകൃതി നമുക്ക് ഫ്രീ ആയി തന്നതാണ് പക്ഷേ ഇപ്പോൾ ഇവയൊക്കെ നമ്മൾ പല സാധനങ്ങളാക്കി മാറ്റി കൊണ്ട് വിൽക്കുന്നു നമ്മൾ വെള്ളം വിൽക്കുന്നു വായു കൂടി വിൽക്കുന്നു ഇവയൊക്കെ നമ്മുടെ സന്തോഷപൂർണമായ ആരോഗ്യപൂർണമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് അതൊക്കെ വളരെ വാണിജ്യ വൽക്കരിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് ഇത് സാധ്യമാകുന്നത് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയും പ്രകൃതിദത്തമായും ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് നല്ലതുപോലെ ജീവിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഒരു മനുഷ്യനിർമ്മിത ജീവിതരീതിയിൽ ജീവിക്കുമ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടി വരികയും എല്ലാവരും ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യം ചെയ്തു തീർക്കാനുള്ള സമ്മർദ്ദത്തിലും ആയിരിക്കും വളരെ കുറച്ചു ജോലി ചെയ്തുകൊണ്ട് വളരെ കൂടുതൽ പ്രയോജനം ഉണ്ടാക്കുക എന്നതായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് ഈ തിരക്ക് ഒഴിവാക്കുന്നതിനായി നിങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശീലിക്കണം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പ്രകൃതിയിൽ നിന്നും വളരെ അകന്നു പോവുകയും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും അതെല്ലാം സമയം ലാഭിക്കാൻ സഹായിക്കും എന്ന് കരുതി സ്വീകരിക്കുകയും ചെയ്യുന്നു ഇന്റർനെറ്റ് മൊബൈൽ ഇമെയിൽ എസ് എം എസ് ചാറ്റ് എന്നിവ നോക്കൂ നമ്മൾ വിചാരിച്ചിരുന്നത് ഇവയൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ സമയം ലാഭിക്കുമെന്നായിരുന്നു സമയ ലാഭം എന്ന രീതിയിൽ വന്ന ഈ കാര്യങ്ങളെല്ലാം പതിയെ നമ്മുടെ സമയത്തെ പിടിച്ചടക്കുകയും നമ്മൾ ഇപ്പോൾ സമയമില്ല എന്നു പറഞ്ഞു ഓടുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ അത് ഒരിക്കലും തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല പക്ഷേ ഓരോന്നും അതിന്റെതായ സമയത്ത് അവിടെ നടക്കുന്നു പ്രകൃതിയുമായി സൌഹാർദ്ദത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും മനുഷ്യന്റെ അഹങ്കാരവും സ്വാർത്ഥതയും അതായത് ആന്ത്രോപോസെന്ററിക് അഥവാ മനുഷ്യ കേന്ദ്രീകൃത സ്വഭാവം വലിയ രീതിയിൽ പ്രകൃതിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ജീവന്റെ തുടിപ്പുള്ളത് ഭൂമിയിൽ മാത്രമാണ് ഒരു അച്ചടക്കവുമില്ലാതെയുള്ള മനുഷ്യന്റെ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം ഉദാഹരണത്തിന് ജൈവ ഇന്ധനങ്ങളുടെയും വെള്ളത്തിന്റെയും ഓക്സിജന്റെയും ഉപയോഗം നമ്മുടെ സ്വന്തം വീടിന് തീ വെക്കുന്നത് പോലെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കും എപ്പോഴാണോ നമ്മൾ ഈ വിഭവങ്ങളൊക്കെ അധികമായി ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും ജൈവ ഇന്ധനങ്ങളെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം കാർബൺഡൈഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറത്തു വിടുകയും അത് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുകയും അത് ഭൂമിയിൽ ചൂട് കൂട്ടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഇത് ആഗോളതാപനത്തിന് അഥവാ ഗ്ലോബൽ വാമിംഗിന് കാരണമാകുന്നു ആഗോളതാപനത്തിലൂടെ മഞ്ഞ്മലകൾ ഉരുകുകയും അത് സുനാമിക്ക് കാരണമാവുകയും ചെയ്യുന്നു ഭൂമിയുടെ ഒരു ഭാഗത്ത് വരൾച്ചയും ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു കടലിലെ ജലനിരപ്പ് ഉയരുന്നതും മറ്റൊരു പ്രത്യാഘാതമാണ് കടലോര പ്രദേശങ്ങളെയും ഐലൻഡ്കളെയും അടുത്തുള്ള സിറ്റികളെയും ഒക്കെ ഇത് വെള്ളത്തിനടിയിലാക്കാനും സാധ്യതയുണ്ട് അതുപോലെ ഒരിക്കൽ കടലിലെ ജലനിരപ്പ് ഉയർന്നാൽ പതിയെ പതിയെ അടുത്തുള്ള സ്ഥലങ്ങൾ എല്ലാം വെള്ളത്തിനടിയിൽ ആവുകയും പിന്നീട് സ്ഥല ലഭ്യത ഇല്ലാതെ വരികയും പതിയെപ്പതിയെ നമ്മുടെ രാജ്യം മുഴുവൻ വെള്ളത്തിനടിയിൽ ആകുകയും ഒരു രാജ്യവും അവിടത്തെ ജനതയെയും നാമാവശേഷമാവുകയും ചെയ്യുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ കാരണം ഇല്ലാതെ ആവാം മനുഷ്യർ കാലാവസ്ഥ അഭയാർത്ഥികൾ പോലെ ആയിത്തീരുന്നു കാരണം അവർ അവരുടെ വീടും പൌരത്വവും രാജ്യവും ഒക്കെ ഈ കാലാവസ്ഥയുടെ ദുരന്തത്തിലൂടെ നഷ്ടപ്പെടുത്തുന്നു അവർ വെള്ളമില്ലാത്ത ഉണങ്ങിയ പ്രദേശങ്ങളിലേക്ക് ആഹാരത്തിനുവേണ്ടി ചേക്കേറുന്നു അവിടെ അവർ ആഹാരത്തിനും മറ്റ് അവശ്യ വസ്തുക്കൾക്കും വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരുന്നു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ധാരാളം സിനിമകളും ഉണ്ട് ഉദാഹരണത്തിന് ഡേ ആഫ്റ്റർ ടുമാറോ വാട്ടർ വേൾഡ് മാഡ് മാക്സ് ഫാരി റോഡ് Mad Max Fury Road എന്നിവയൊക്കെ ഇവയെല്ലാം ഒരു അരാജക അവസ്ഥയെയാണ് കാണിക്കുന്നത് അരാജകാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു ലോകമാണ് മൌനവും വിഷാദവും കലർന്ന ലോകം അവിടെ വെള്ളപ്പൊക്കമോ വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥയോ ഒക്കെ തന്നെ ആളുകളുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു അത് ആ ആളുകളെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരാക്കി മാറ്റുന്നു അവർ ജിപ്സികളെപ്പോലെയാണ് ഒരു പ്രത്യേക സ്ഥലമോ ഒരു പ്രത്യേക വീടോ ഒന്നുമില്ലാതെ ആൾക്കാർ ആണവർ അതിനാൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഓരോ ദേശത്തെയും രീതികൾ അനുസരിച്ച് ഓരോ കഷ്ടതകൾ അവർക്ക് നേരിടേണ്ടി വരുന്നു അതിനായി അവർക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരുന്നു അവർ ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി ആ സ്ഥലം നഷ്ടപ്പെട്ടാൽ അവർക്ക് താമസിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ ഒക്കെ നഷ്ടപ്പെട്ടു എന്നും വരാം അതുകൊണ്ട് ജീവിതം ഇത്തരത്തിലുള്ള അലഞ്ഞു തിരിയലിൽ അവസാനിക്കുന്നു ഈ പറഞ്ഞ സിനിമകളിലെല്ലാം കാലാവസ്ഥാ വ്യതിയാനം മൂലം അലഞ്ഞു തിരിഞ്ഞു ജീവിക്കേണ്ടി വന്ന ആളുകളുടെ കഥയാണ് പറഞ്ഞത് കുറച്ചു പഴയ മറ്റൊരു സിനിമയുണ്ട് സോയിലൻഡ് ഗ്രീൻ അതുപോലെ പുതിയ ഒരു സിനിമയായ സ്നോ പിയേഴ്സർ ഈ സിനിമകളിലൊക്കെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ ലഭ്യത കുറവിനെ കുറിച്ചാണ് പ്രതിപാദിച്ചത് എങ്ങനെയാണ് അവർ ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ചതെന്നും ആണ് ഇതിൽ പറയുന്നത് സോയിലെന്റ് ഗ്രീൻ കഴിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ് പക്ഷേ ഇത് ശരിക്കും മൃതദേഹത്തിൽ നിന്നുമാണ് ഉണ്ടാക്കിയെടുdക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു സ്നോ പിയർസർറിൽ ഒരു തരത്തിലുള്ള പ്രോട്ടീൻ ബാറുകൾ ആണ് നൽകിയത് അത് ശരിക്കും പാറ്റകൾ മറ്റു ചെറു ജീവികൾ എന്നിവയിൽ നിന്നും ഉണ്ടാക്കിയതാണ് മറ്റൊരു കാലാവസ്ഥ പ്രതിപാദ്യ വിഷയം ആയ നോവൽ പോളർ സിറ്റി റെഡ്പോളാർ സിറ്റി Red ആണ് ഈ നോവലിൽ ആളുകൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ജീവിതരീതിയും ആഹാരത്തിനുവേണ്ടി ജീവികളെ വേട്ടയാടുകയും പണ്ട് കാലത്തെ ആളുകൾ ജീവിച്ചിരുന്ന പോലെ വേട്ടയാടുകയും മറ്റു വിഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഗർഭപാത്രം ഉൾപ്പെടെ സ്ത്രീകളുടെ എണ്ണം ഈ നോവലിൽ കുറവായതുകൊണ്ട് അവർക്ക് സുരക്ഷിതത്വം നൽകുന്നത് അവർ പ്രത്യുല്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോഴാണ് അതിൽ ഒരു സ്ത്രീക്ക് 6 പുരുഷന്മാരുമായി ജീവിക്കേണ്ടതുണ്ട് ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് നിങ്ങൾ ഇതിൽ സന്തുഷ്ടരാണോ ഇത്തരത്തിൽ മനുഷ്യ മാംസം കൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യയെ മറ്റു ആൾക്കാരുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറാവുമോ ഇതൊക്കെയാണ് ഈ നോവൽ നമുക്ക് മുന്നിലേക്ക് തരുന്ന ചിന്താ വിഷയം നമ്മൾ ഇനിയെങ്കിലും ഒരു കാലാവസ്ഥ സംരക്ഷണത്തിന് തയ്യാറായില്ലെങ്കിൽ ഇതൊക്കെ നേരിടേണ്ടി വരാം ഇത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള ദുരന്തങ്ങളും ചർച്ച ചെയ്യുന്നതിനോടൊപ്പം അത് നമുക്ക് പറഞ്ഞു തരുന്നു എത്രത്തോളം ഇത് നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ പിന്നോക്ക വിഭാഗക്കാരെയും ബാധിക്കുന്നു എന്ന് മറ്റൊരു രസകരമായ കാര്യം ഇതിൽ പറയുന്നത് രാഷ്ട്രീയക്കാരും പണക്കാരും ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഭൂമിക്കടിയിൽ തുരങ്കം നിർമിച്ചെന്നു വരാം അവർ വളരെ മുൻപേ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുരങ്കം ഒക്കെ ഉണ്ടാക്കിയിരിക്കും അതുപോലെ അവർക്ക് ഏറ്റവും പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാം എന്നും അറിയാമായിരിക്കും അവർ ഭൂമിക്കടിയിൽ സുരക്ഷിതമായിരുന്നു കൊണ്ട് അതിനു മുകളിൽ ദുരിതമനുഭവിക്കുന്നവരെ നിയന്ത്രിക്കുകയും ചെയ്യും നിങ്ങൾ ഈ നോവൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ സിനിമകൾ കാണുമ്പോഴോ ഇതൊക്കെ വളരെ പേടിപ്പെടുത്തുന്നതായി തോന്നാം പക്ഷേ ഇതിൽ ക്ളൈ ഫൈ എന്നൊ ക്ളായി ഫ്ലിക്സ് എന്നൊ പറയുന്നു അതായത് കാലാവസ്ഥ നോവലുകളും കാലാവസ്ഥ സിനിമകളും ഇതെല്ലാം നമുക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നൽകുന്നത് നമ്മളെ വളരെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്താൻ ശ്രമിക്കുന്നവയാണ് ഇവയെല്ലാം ഇതൊക്ക മനുഷ്യന്റെ പ്രകൃതിയോടുള്ള നിരുത്തരവാദിത്തപരമായ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രകൃതിക്കായി ഉണർന്നു പ്രവർത്തിക്കേണ്ടതല്ലേ ഇങ്ങനെ ഒരു ആഗോള ദുരന്തമുണ്ടായാൽ മനുഷ്യൻ ഒരു പൊടി പോലും അവശേഷിക്കാതെ ഭൂമുഖത്തുനിന്നും നാമാവശേഷമാകും കാലാവസ്ഥാവ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്ന ഏതൊരു ദുരന്തത്തിനും മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകാൻ ഉള്ള കഴിവുണ്ടായിരിക്കും മനുഷ്യന്റെ ഒരു വിഭാഗവും നില നിൽക്കില്ല ചില ഇഴജന്തുക്കളോ പാറ്റകളോ പുഴുക്കളോ ഒക്കെ മാത്രമേ പിന്നെയും ഭൂമുഖത്ത് ഉണ്ടാവുകയുള്ളൂ ഈ ജീവികൾക്ക് നില നിൽക്കാൻ സാധിക്കും നിങ്ങൾക്ക് മനുഷ്യന്റെ ജീവിത കാലയളവ് നോക്കിയാൽ മനസ്സിലാകും ഏറ്റവും അവസാനം ഭൂമുഖത്തേക്ക് വന്ന മനുഷ്യൻ വളരെ വേഗം അപ്രത്യക്ഷമാകേണ്ടി വരും ഇനിയും ഒരുപാട് വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടും ആദരിച്ചു കൊണ്ടും ഒക്കെ അത് സുരക്ഷിതമായിരിക്കാൻ സഹായിക്കേണ്ടതുണ്ട് നമുക്ക് ഈ വിഭവങ്ങളെല്ലാം എങ്ങനെ നില നിർത്താം എന്ന് പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി കൊണ്ട് വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ചൂഷണം ചെയ്യാതെ ഇരിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വവും സോഫ്റ്റ് സ്കിലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഇനി വരാൻ പോകുന്ന കാലത്ത് ഒരാളുടെ പ്രകൃതി സംരക്ഷണത്തിനുള്ള കഴിവ് അയാളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ് സ്കിൽ ആയി മാറുന്നതോടൊപ്പം അത് ഒരാളുടെ വികസിതമായ വ്യക്തിത്വത്തെയും കാണിക്കുന്നു ധാരാളം ആളുകൾ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഉള്ള കാരണങ്ങൾ കണ്ടെത്തിയതിനു നോബൽ പ്രൈസ് ജേതാവായ അൽ ഗോറിനെ പോലെയുള്ള ആളുകൾ ഈ പ്രശ്നങ്ങളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും ഇതിലൂടെ ഉണ്ടാവുന്ന ദുരന്തങ്ങളെ കുറിച്ച് ഒരു അവബോധം ആളുകളിൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലൂടെ മനസ്സിലാകുന്നത് ഇത് ഒരാളിന്റെ വ്യക്തിത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയി മാറുമെന്നും ആളുകൾ നിങ്ങൾ എങ്ങനെയാണ് പ്രകൃതി സംരക്ഷണത്തിനായുള്ള കാര്യങ്ങളിൽ പങ്കാളികളാകുന്നത് എന്ന ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു പ്രകൃതി സംരക്ഷണ പ്രവർത്തകനാണോ അല്ലയോ അതല്ലെങ്കിൽ ഇതിന്റെ പ്രചാരകൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണോ എന്നൊക്കെ സമൂഹം വിലയിരുത്തും ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിത്വം ഏത് രീതിയിലാണ് എന്നതിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ ആയിരിക്കും ഇത് ഓരോ വ്യക്തികളിലും നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നു വേർതിരിക്കാൻ സാധിക്കുമ്പോൾ ഇതൊരു സോഫ്റ്റ് സ്കിൽ ആയി മാറുന്നു ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾക്ക് സമൂഹവുമായി ഇടപെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതിയുമായി എങ്ങനെ നല്ല സൌഹാർദ്ദപരമായി ഇടപെടാം എന്നു മനസ്സിലാക്കാൻ കഴിയും അത് നിങ്ങളെ വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളായി മാറാൻ സഹായിക്കുന്നു അതിന് സഹായിക്കാനായാണ് ഞാൻ നിങ്ങൾക്ക് ചില ചെറിയ ടിപ്പുകൾ തന്നത് എങ്ങനെ നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ചെയ്തു കൊണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയും എന്നും പറഞ്ഞു തന്നു അതിനാൽ നിങ്ങൾ എത്രയും വേഗം ഈ നിർദേശങ്ങൾ വച്ചുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ ആരംഭിക്കുക ഈ ദിവസത്തേക്കാൾ ഈ നിമിഷത്തെക്കാൾ നല്ല മറ്റൊരു ദിവസം ഇനി വരാനില്ല പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ടിപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പ് എനിക്ക് പൊതുവായി പറയാനുള്ളത് കഴിയുന്നതും വിഭവങ്ങൾ പാഴാക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഒന്നും പാഴാക്കി കളയരുത് കാരണം നമുക്ക് വിഭവങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരുന്നു ഇത് വളരെ വിരളമാണ് അത് ആഹാരമായാലും വെള്ളമായാലും ഒന്നും പാഴാക്കരുത് നിങ്ങൾ വലിയ പണക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ആ പൈസ കൊടുത്തു വാങ്ങുന്ന സാധനങ്ങൾ വലിച്ചെറിയാനോ ചീത്തയാക്കാനോ കഴിയില്ല നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്ന കാരണത്താൽ അതിനെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ ആകില്ല മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വിഭവങ്ങളെ മോശമായി ഉപയോഗിക്കാനോ ചീത്തയാക്കി കളയാനോ യാതൊരു അധികാരവും നിങ്ങൾക്കില്ല അതിനാൽ തന്നെ ഒരു കാര്യങ്ങളെയും നശിപ്പിക്കാൻ പാടില്ല അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പാഴ് വസ്തുക്കളിൽ നിന്നും കഴിയുന്നത്ര പുനരുല്പാദനം നടത്തുക എന്നതാണ് സാധനങ്ങളുടെ പുനരുപയോഗം ചെയ്യുക ഒന്നും പാഴാക്കി കളയാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജലസംരക്ഷണമാണ് കുടിവെള്ളം വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കുക പല്ല് തേക്കുമ്പോഴും മറ്റും പൈപ്പ് തുറന്നിടുമ്പോൾ രണ്ടു മൂന്നു ലിറ്റർ വെള്ളമാണ് വെറുതെ പാഴായി പോകുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് 100 മില്ലി ലിറ്റർ അല്ലെങ്കിൽ 50 മില്ലി ലിറ്റർ വെള്ളം മതിയാകും ബ്രുഷും വായും വൃത്തിയാക്കുന്നതിന് അതുപോലെ തന്നെയാണ് പൈപ്പ് തുറന്നിട്ട് പഴങ്ങളും പച്ചക്കറികളും കഴുകി വൃത്തിയാക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചു വെച്ച് കഴുകാം പൈപ്പ് തുറന്നിട്ട് കഴുക്കേണ്ടതില്ല നമുക്ക് കറന്റും ലഭിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് ധാരാളം ഊർജം ചെലവഴിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഇതും പാഴാക്കാതെ അത്യാവശ്യത്തിനു മാത്രം ഉപയോഗിക്കുക ഉപയോഗിക്കാത്ത സമയത്ത് എല്ലാ ഫാനും ലൈറ്റുകളും എ സി യും ടി വി യും ലാപ്ടോപ്പും ഒക്കെ ഓഫ് ചെയ്ത് സൂക്ഷിക്കുക എ സി ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ വാതിൽ ശരിക്കും അടച്ചിടുക കാരണം തണുത്ത കാറ്റ് പുറത്ത് പോകാതിരിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നവർ പറയുന്നത് നിങ്ങൾ കഴിയുന്നതും ഫ്ലൈറ്റ് യാത്ര ഒഴിവാക്കണം എന്നാണ് കാരണം ഇത് ധാരാളം ജൈവ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട് അവർ നിർദ്ദേശിക്കുന്നത് ട്രെയിൻ യാത്രയാണ് ഇത് വളരെ കുറച്ച് ഇന്ധനം ഉപയോഗിച്ച് യാത്ര ചെയ്യാവുന്ന മാർഗ്ഗം ആnb നിങ്ങൾക്ക് കാർ പങ്കുവെച്ചുകൊണ്ട് ഉപയോഗിക്കാം അതായത് നിങ്ങൾക്ക് മറ്റൊരാളിന്റെ ലിഫ്റ്റ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ മറ്റൊരാളെ കൂടി കൂട്ടാം അതായത് കാറിലെ സ്ഥലം പങ്കുവയ്ക്കുക ഒരാളിനു വേണ്ടി ഒരു കാർ ഉപയോഗിക്കാതിരിക്കുക കഴിയുന്ന സമയങ്ങളിലൊക്കെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുക അതും വളരെക്കുറച്ച് ഇന്ധനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതിലൂടെ ധാരാളം കാർബൺഡൈഓക്സൈഡ് ഉണ്ടാകുന്നത് തടയാൻ കഴിയുന്നു കഴിവതും സൈക്കിൾ ഉപയോഗിക്കുകയോ നടന്നു പോവുകയോ ചെയ്യുക കഴിയുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് പൊതു ഗതാഗതം ഉപേക്ഷിച്ച് സൈക്കിൾ ഉപയോഗിക്കാം അതിലൂടെ നിങ്ങൾക്ക് പ്രകൃതി സൌഹാർദ്ദവും സൃഷ്ടിക്കാം ആരോഗ്യവും നന്നാക്കാം നിങ്ങൾ വലിയ വ്യാവസായിക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വലിയ കെട്ടിടങ്ങളിലേക്ക് കയറുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കുക പടികൾ നടന്നു കയറുക വീണ്ടും നിങ്ങൾ ആരോഗ്യവാനാവുകയും പ്രകൃതി സൌഹാർദ്ദപരമായി ഇരിക്കാൻ കഴിയുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇല്ലാതാക്കുക എന്നതാണ് പ്ലാസ്റ്റിക് ഒരു ജീർണിക്കുന്ന വസ്തുവല്ല അതിനാൽ അത് ക്ഷയിച്ചു പോകുന്നില്ല ഇത് മണ്ണിൽ ഇട്ടാൽ അത് മരങ്ങളെയും മറ്റു മണ്ണിൽ ജീവിക്കുന്ന ജീവികളെയും ദോഷകരമായി ബാധിക്കുന്നു ആറുകളിലും കുളങ്ങളിലും ഇട്ടുകഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നത് തടഞ്ഞു വെക്കുകയും അതിനാൽ ഇതൊക്കെ ഒഴുകിപ്പോകാതെ ചില സ്ഥലങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യുന്നു നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ പല തടാകങ്ങളും ആറുകളും ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് മൂലം ഒഴുകാൻ കഴിയാത്ത അവസ്ഥയിൽ ആവുകയും മാലിന്യം അടിഞ്ഞുകൂടി ഒടുവിൽ ആ ജലസ്രോതസ്സ് നശിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടു തന്നെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക പല നഗരങ്ങളും പ്ലാസ്റ്റിക് ഇപ്പോൾതന്നെ നിരോധിച്ചു കഴിഞ്ഞു അവർ പ്ലാസ്റ്റിക് ബാഗുകളുടെ വില വളരെ കൂട്ടി കൊണ്ട് അതിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്തതായി നിങ്ങൾ വിഷമയമായ പച്ചക്കറികൾ ഉപേക്ഷിച്ച് സ്വന്തമായി കൃഷി ചെയ്യാൻ ശീലിക്കുക നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ കൃഷി ചെയ്യുക നിങ്ങൾ ഒരു ഫ്ലാറ്റിൽ താഴത്തെ നിലയിൽ താമസിക്കുന്ന ആൾ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടെറസ്സിൽ കൃഷി ചെയ്യാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്ന ആഹാരം നല്ല രുചിയോടെ കഴിക്കാൻ സാധിക്കും അത് വിഷമമൊന്നും ചേർക്കാത്ത ജൈവ വിഭവം ആയിരിക്കും അപ്പോൾ ഇത് നിങ്ങളെ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കാൻ സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രകൃതിയോട് സംവദിക്കാൻ പഠിപ്പിക്കുക എന്നതാണ് നിങ്ങളവരെ പരിസ്ഥിതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പഠിപ്പിക്കുകയും അതിനെ എന്നും ഹരിതാഭമായ വളരെ നൈർമല്യമുള്ള അതുമായിസൂക്ഷിക്കാൻ പഠിപ്പിക്കുകയും വേണം അല്ലാതെ എപ്പോഴും മൊബൈലിലോ കമ്പ്യൂട്ടറിലോ വീഡിയോ ഗെയിമുകൾ കളിച്ചിരിക്കാനല്ല പ്രേരിപ്പിക്കേണ്ടത് അതിനാൽ അവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയും സ്വന്തം അനുഭവങ്ങളിലൂടെ പ്രകൃതിയെ മനസ്സിലാക്കാൻ ശീലിപ്പിക്കുകയും ചെയ്യുക അതിലൂടെ അവർക്ക് ശരിക്കും മാറാൻ സാധിക്കും പ്രകൃതിയുമായി അടുത്തിടപഴകുന്നതിലൂടെ ഭാവിയിൽ അവർ സ്വമേധയാ പാർക്കുകൾ വൃത്തിയാക്കുന്നത് പോലെ സ്വന്തം ചുറ്റുപാടുകൾ വൃത്തിയാക്കാനുള്ള ജോലികൾ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു അവർ വളരെ കാര്യക്ഷമമായി ഇതിൽ പങ്കെടുക്കുന്നു പക്ഷേ മോട്ടിവേഷൻ കിട്ടുന്നത് വളരെ ശുദ്ധമായ ചുറ്റുപാടിൽ നേരിട്ട് ഇടപഴകി ശീലിക്കുന്നതിലൂടെയാണ് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് ജാറങ്ങളിലോ കണ്ടെയ്നറുകളിലോ ആണ് വാങ്ങുന്നതെങ്കിൽ അതിനെ വീണ്ടും ഉപയോഗിക്കുക അത് പുരയിടത്തിൽ വലിച്ചെറിയാതെ ഇരിക്കുക അടുത്തതായി നിങ്ങൾ കറണ്ട് ഉപയോഗിക്കുന്നതിനു പകരം സോളാർ ഉപയോഗിക്കുക സോളാർ പവർ ചാർജറുകളോ സോളാർ പവർ വിളക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഷോപ്പിങ്ങിനു പോകുമ്പോൾ തുണി സഞ്ചി കൂടെ കൊണ്ടു പോവുക അല്ലാതെ കടകളിൽ നിന്നും പൈസ കൊടുത്ത് പ്ലാസ്റ്റിക് ബാഗുകൾ വാങ്ങാതിരിക്കുക അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ബാഗ് കൊണ്ടു പോവുക പ്ലാസ്റ്റിക് ബാഗിനു വേണ്ടി അനാവശ്യമായി പൈസ ചിലവാക്കാതിരിക്കുക അതേസമയം ഷോപ്പിങ്ങിന് പോകുമ്പോൾ തുണി സഞ്ചി കരുതുന്നത് ഒരു സ്വഭാവം ആക്കി മാറ്റുക പ്രിന്റിങ്ങിന്റെ കാര്യമെടുത്താൽ കഴിയുന്നതും പ്രിന്റ് ചെയ്യുന്നത് ഒഴിവാക്കുക കഴിയുന്ന സമയങ്ങളിൽ ഒക്കെയും കാര്യങ്ങൾ സോഫ്റ്റ് കോപ്പി ആയി തന്നെ സൂക്ഷിക്കുക ഒരു മീറ്റിങ്ങിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പും പ്രൊജക്ടറും ഉപയോഗിച്ച് എല്ലാം ഒരു സ്ക്രീനിൽ കാണിക്കാവുന്നതാണ് അല്ലാതെ 50 പേജുള്ള ഒരു മെറ്റീരിയൽ 40 കോപ്പിയെടുത്ത് എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ല അത് നല്ലതുപോലെ ഒരു സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്ത് കാണിച്ചാൽ എല്ലാവർക്കും കാണാനും അതിൽ അഭിപ്രായം പറയാനും കഴിയും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ പേപ്പർ പ്രിന്റിംഗ് ചെയ്യുന്നത് ഒഴിവാക്കുക കാരണം പേപ്പർ ഉണ്ടാക്കുന്നത് മരങ്ങളിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പേപ്പറിലെ ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കാൻ കഴിയുന്നു ബൾബുകളുടെ കാര്യം നോക്കിയാൽ എപ്പോഴും ഊർജം ലാഭിക്കുന്ന തരത്തിലുള്ള ബൾബുകൾ ഉപയോഗിക്കുക ഒരു ചെറിയ സ്ഥലത്തേക്കൊക്കെ വലിയ വാട്ട് ബൾബ് ഉപയോഗിക്കാതെ വൈദ്യുതി വളരെ കുറച്ച് ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും എവിടെയെല്ലാം ഇത് ഉപയോഗിക്കാൻ കഴിയുന്നുവോ അവിടെയെല്ലാം ഉപയോഗിക്കുക ഉപയോഗ ശേഷം വലിച്ചെറിയുന്ന രീതിയിൽ ഉള്ള സാധനങ്ങൾ വാങ്ങരുത് കാരണം ഇന്നത്തെ കാലത്ത് ധാരാളം യൂസ് ആൻഡ് ത്രോ സാധനങ്ങൾ ആളുകൾ വാങ്ങുകയും ഒരു ഉപയോഗം കഴിയുമ്പോൾ അതിനു കേടുപാടുകൾ ഉണ്ടാവുകയും അത് ചുറ്റുപാടും വലിച്ചെറിയുകയും ചെയ്യാറുണ്ട് അതിനാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങരുത് എപ്പോഴും നമുക്ക് നന്നാക്കി ഉപയോഗിക്കാൻ കഴിയുന്നവ മാത്രം വാങ്ങുക അതുപോലെ പുതിയതൊന്ന് വാങ്ങുന്നത് പഴയത് നന്നാക്കി നോക്കാൻ ശ്രമിച്ചതിനുശേഷം ആവുന്നതാണ് നല്ലത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെടികൾ നടുക എന്നതാണ് എവിടെയെല്ലാം കഴിയുന്നുവോ എപ്പോഴെല്ലാം കഴിയുന്നുവോ എത്രയെണ്ണം ചെയ്യാൻ കഴിയുന്നുവോ അത്രയും ചെയ്യുക അതുപോലെ അവയെ വെള്ളം ഒക്കെ ഒഴിച്ച് നല്ലതുപോലെ പരിപാലിക്കുക അപ്പോൾ ഇത് വളരെ നല്ല ഒരു അനുഭവമാകും അടുത്തതായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പക്ഷികൾക്കു വേണ്ടി കുറച്ചു വെള്ളം നമ്മുടെ ചുറ്റുപാടും കരുതുക എന്നതാണ് ചൂട് സമയങ്ങളിൽ പക്ഷികൾ വളരെ ദാഹിച്ചു വലഞ്ഞു വെള്ളത്തിനായി അലഞ്ഞു നടക്കാറുണ്ട് അവർക്ക് ദാഹം ശമിപ്പിക്കാൻ കഴിയാതെ വരികയും ചില പക്ഷികൾ അതുമൂലം മരിക്കുകയും ചെയ്യാറുണ്ട് സൂര്യതാപം കാരണം അതുപോലെ പക്ഷികൾക്കായി ആഹാരവും സൂക്ഷിക്കാവുന്നതാണ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ ഭൂമിയെ നശിപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു കാണിക്കുക എന്നതാണ് അതായത് നിങ്ങൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും പതിയെ അവരും പ്രകൃതിയെ സംരക്ഷിക്കാൻ തുടങ്ങുകയും വളരെ സുരക്ഷിതമായ ഒരു ജീവിതവും വളരെ സുരക്ഷിതമായ ഒരു ഭാവിയും അവർക്ക് ഉണ്ടാവുകയും നമ്മുടെ ഭൂമി ദീർഘകാലം വളരെ നന്നായി നില നിൽക്കുകയും ചെയ്യുന്നു മൊത്തത്തിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോപോസെൻട്രിക് ചിന്താഗതി മാറ്റണം ആൻഡ്രോപോസെൻട്രിക് ചിന്താഗതി എന്ന് പറഞ്ഞാൽ മനുഷ്യ കേന്ദ്രീകൃത ചിന്താഗതി എന്നാണർദ്ധം അതായത് ഇവിടെയുള്ള പക്ഷികളും മൃഗങ്ങളും മരങ്ങളും ചെടികളും എല്ലാം എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതിനാൽ എനിക്ക് എന്തും ചെയ്യാം അവർ എന്റെ കനിവിൽ ജീവിക്കുന്നവരാണ് അവർ എന്റെ വരുതിയിൽ നിൽക്കേണ്ടവരാണ് എന്നൊക്കെയുള്ള ചിന്താഗതി അതിനു പകരം ഒരു ജൈവ കേന്ദ്രീകൃത ചിന്താഗതി അതിനു പകരം ഒരു ജൈവ കേന്ദ്രീകൃത ചിന്താഗതി അല്ലെങ്കിൽ പ്രകൃതി കേന്ദ്രീകൃത ചിന്താഗതി കൊണ്ടുവരിക എന്താണ് ഈ ജൈവ കേന്ദ്രീകൃത ചിന്താഗതി അല്ലെങ്കിൽ പ്രകൃതി കേന്ദ്രീകൃത ചിന്താഗതി ഇതിൽ പറയുന്നത് നിങ്ങൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട് ആരും അത് നിരസിക്കുന്നില്ല പക്ഷേ അതു പോലെ തന്നെ അമീബയ്ക്കും ഉറുമ്പുകൾക്കും മറ്റു ചെറിയ ജീവികൾക്കും ഒക്കെ തുല്യ അവകാശം ഉണ്ട് നിങ്ങൾ ഒരു മനുഷ്യൻ ആയതുകൊണ്ട് കുറച്ചു വലിയ ഒരു ആകാരമുണ്ടായിരിക്കാം അതുകൊണ്ട് ചെറിയ രൂപം ഉള്ള ജീവികൾക്കൊന്നും ഒരധികാരവുമില്ല എന്ന് വിചാരിക്കരുത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ഒരു ജീവനുള്ളവയെയും കൊല്ലാനുള്ള ഒരധികാരവും നിങ്ങൾക്കില്ല ഈ അധികാരം നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നതാണ് പക്ഷേ ഇത് ശരിക്കും പ്രകൃതിയോട് ചെയ്യുന്ന അനീതിയാണ് അതിനാൽ പ്രകൃതിയോട് വളരെ സൌഹാർദ്ദപരമായി പെരുമാറുക എപ്പോഴും ഒരു ജൈവ കേന്ദ്രീകൃത ചിന്താഗതി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴാണ് നിങ്ങൾ മറ്റു ജീവജാലങ്ങളെ അതായത് പക്ഷികളെയും മൃഗങ്ങളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുന്നത് അവരെയും നിങ്ങളെ പോലെയുള്ളവർ ആയി പരിഗണിക്കുന്നത് അവിടെയാണ് ഒരു ജൈവ കേന്ദ്രീകൃത രീതിയായി മാറുന്നത് ചില ആളുകൾ മറ്റു ജീവജാലങ്ങളെ നമ്മളെക്കാൾ ഒരുപടി മുന്നിൽ ആയി കാണാറുമുണ്ട് അവർക്ക് തോന്നാറുള്ളത് പ്രകൃതിക്കു മുന്നിൽ മനുഷ്യർ ചെറുതാണ് എന്നതാണ് അതിനാൽ അവർ വളരെ ആദരവോടെ അതിനെ സമീപിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റിയാൽ നിങ്ങൾക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയും പ്രശസ്തരായ വ്യക്തികൾ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രസകരമായ വാചകങ്ങൾ നോക്കാം മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഇതാണ് ഓരോ മനുഷ്യന്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭൂമി ധാരാളമാണ് എന്നാൽ ഓരോ മനുഷ്യന്റെയും അത്യാഗ്രഹം നിറവേറ്റാൻ ഭൂമിക്കാവില്ല അപ്പോൾ നിങ്ങളോരോരുത്തരും ഭൂമി നമുക്ക് തന്നിട്ടുള്ള വിഭവങ്ങളെ മിതമായി ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ലത് പോലെ ഉപയോഗിക്കാൻ കഴിയും പക്ഷേ ചിലർ വളരെ അത്യാഗ്രഹത്തെ പ്രകൃതിയെ ചൂഷണം ചെയ്താൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ വിഭവങ്ങൾ തികയില്ല മറ്റൊന്ന് ഗ്യാരി സ്നൈഡർ പറഞ്ഞ രസകരമായ കാര്യമാണ് ഇത് വളരെ ശക്തമായ ഒരു മെസ്സേജ് നമുക്ക് തരുന്നു പ്രകൃതി നമുക്ക് വിനോദ യാത്ര പോകേണ്ട സ്ഥലം അല്ല അത് നമ്മുടെ സ്വന്തം വീടാണ് അതായത് നിങ്ങൾ ഒരു വിനോദ യാത്ര പോകുമ്പോൾ കാണേണ്ട ഒരു സ്ഥലമല്ല ഇത് നമ്മുടെ ചുറ്റുപാടാണ് ഇത് നമ്മുടെ വീടാണ് അതിനാൽ നമ്മൾ അതിനെ നല്ലതുപോലെ സംരക്ഷിക്കണം നിങ്ങൾ ഒരു വിനോദ യാത്ര പോകുമ്പോൾ ഒരു പാർക്കിൽ എത്തുകയും അവിടെ ഇരുന്ന് എന്തെങ്കിലും ഒരു പാനീയം കുടിച്ചതിനുശേഷം ചുറ്റിലും വലിച്ചെറിയുകയും ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് നിങ്ങളുടെ വീടാണ് അത് നിങ്ങളുടെ ചുറ്റുപാടാണ് അതിനു നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അത് എപ്പോഴും ഓർക്കുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ഞാൻ കുറച്ചെങ്കിലും നിങ്ങളുടെ മനുഷ്യ കേന്ദ്രീകൃതമായ മനസ്ഥിതിയെ ഒരു ജൈവ കേന്ദ്രീകൃത മനസ്ഥിതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും മാറ്റുന്നു അതിനാൽ എപ്പോഴും ഓർക്കുക എപ്പോഴും വളരെ സഹൃദയരായ ഇരിക്കുക അതിനായി നിങ്ങൾക്ക് തരാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ കഴിയുന്നത്ര വളർത്തുമൃഗങ്ങളുമായും മറ്റു ജീവജാലങ്ങളുമായും വളരെയധികം ഇടപഴകുക എന്നതാണ് കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഈ ജീവികൾ എല്ലാം വളരെ സന്തോഷ പൂർണമായാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അവരെ മാനസികമായി തകർക്കാൻ കഴിയില്ല അവരുടെ സന്തോഷത്തിന്റെ അലകൾ നിങ്ങളിലേക്ക് വരികയും നിങ്ങളും വളരെ സരളഹൃദയനാവുകയും ചെയ്യുന്നു ചില ആളുകൾ ചെടികളുടെ അടുത്തേക്ക് പോവുകയും അതിനെയൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചിലർ അതിനോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട് അവരെ ഇത്തരക്കാർ കുട്ടികളെ പോലെയാണ് കാണുന്നത് കാരണം ചെടികളും ശ്വസിക്കാറും വളരാറും ഒക്കെയുണ്ടല്ലോ മനുഷ്യരെപ്പോലെ അവരോട് സംസാരിക്കുമ്പോൾ ചെടികളും നല്ല ഫ്രഷ് ആയി നിൽക്കുകയും ആളുകളെ അവരുടെ അടുത്തേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാതിരുന്നാൽ അവർ വിഷമിച്ചു നിൽക്കുന്നത് പോലെ തോന്നാറുണ്ട് അവർ നിങ്ങളെ മിസ്സ് ചെയ്യാറുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള ഒരു സഹജീവി പരമായ ബന്ധമുണ്ടാക്കുന്നതിനോടൊപ്പം അവയെ സന്തോഷമായി ജീവിക്കാനും സഹായിക്കുന്നു അപ്പോൾ അവ നിങ്ങളെയും വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയുമിരിക്കാൻ സഹായിക്കുന്നു ഈ ചിന്തയോടൊപ്പം ഞാൻ ഇന്നത്തെ ലെസ്സന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട കുറച്ച് വീഡിയോകൾ ഇവിടെ പ്രതിപാദിക്കാം ഞാൻ നിങ്ങൾക്ക് ചില സിനിമകളുടെ പേരുകൾ തന്നിരുന്നല്ലോ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് തന്നെ കാണാവുന്നതാണ് അതുപോലെ കാലാവസ്ഥ പ്രതിപാദ്യ വിഷയമായ പോളാർ സിറ്റി റെഡ് എന്ന നോവൽ ഇതു കൂടാതെ നിങ്ങൾക്ക് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് കൂടുതൽ അറിയാനും എന്താണ് ആ അവസരങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുകയും ചെയ്യുന്ന മൂന്ന് വീഡിയോകൾ കൂടിയുണ്ട് ഒന്നാമത്തേത് കുറച്ചു നീണ്ടതാണ് ഇത് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നു മറ്റു രണ്ടെണ്ണം ചെറുതാണ് ആദ്യത്തേത് കാണാൻ കഴിയാത്തവർ രണ്ടാമത്തെ രണ്ടു വീഡിയോകൾ കാണുക അതായത് ക്ലൈമറ്റ് ചേഞ്ച് എക്സ്പ്ലൈൻഡും വാട്ട് യു ക്യാൻ ഡൂ എബൌട്ട് ക്ലൈമറ്റ് ചേഞ്ചും ഇത് അഞ്ച് മിനിട്ട് പോലും ദൈർഘ്യം ഇല്ലാത്ത വീഡിയോകൾ ആണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് കാണാവുന്നതാണ് ഈ ലെസ്സനിനുള്ളിൽ ഇതൊക്കെ പരാമർശിച്ചിരുന്നു എങ്കിലും നേരിട്ട് വീഡിയോയിൽ കാണുമ്പോൾ വളരെ ആകർഷണീയമാവുകയും നിങ്ങൾ ഓർത്തിരിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ കോഴ്സ് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് നൽകാവുന്നതാണ് കോഴ്സിനെ കുറിച്ചോകോഴ്സിന്റെ ഉള്ളടക്കത്തെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും നന്നാക്കാനുള്ളതിനെ കുറിച്ചോ ഞാൻ എന്ന കോഴ്സ് ഡയറക്ടറിനെ കുറിച്ചോ ഞാനെങ്ങനെ ഈ ക്ലാസുകൾ എടുത്തു എന്നതിനെക്കുറിച്ചോ അത് ഫലപ്രദമായിരുന്നൊ എന്നതിനെക്കുറിച്ചോക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാൻ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ പുതിയ കോഴ്സിനെ കുറിച്ച് അതും നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾക്ക് എനിക്ക് ഈ മെയിൽ ഐഡിയിലേക്ക്trcittk ac എഴുതാവുന്നതുമാണ് കഴിഞ്ഞ കോഴ്സിൽ പങ്കെടുത്ത കുറച്ചു പേരുടെ ഫീഡ്ബാക്കിലും ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയ ഇംഗ്ലീഷ് സ്കിൽസ് എന്ന ഭാഗത്തെ ഫീഡ്ബാക്കിലും പലരുടെയും നിർദ്ദേശമായിരുന്നു ഇംഗ്ലീഷ് സ്കിൽസിൽ ഒരു മുഴുനീള കോഴ്സ് ചെയ്യണം എന്ന് അതിനാൽ ഞാൻ നിങ്ങളെ എന്റെ അടുത്ത കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത് ജൂലൈയിലോ ജനുവരിയിലോ നമ്മൾറെക്കോർഡിങ് ചെയ്തു കഴിയുന്ന മുറയ്ക്ക് തുടങ്ങുന്നതായിരിക്കും അന്നേരം നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നതായിരിക്കും ഈ കോഴ്സ് ചെയ്യുന്ന എല്ലാവരെയും അതിൽ കൂടുതൽ പേരും എന്നെ കഴിഞ്ഞ കോഴ്സ് മുതലേ ഉള്ളവരാണ് ഈ കോഴ്സിൽ പങ്കെടുത്ത എല്ലാപേരെയും നമ്മുടെ അടുത്ത് കോഴ്സ് ആയ എസെൻഷ്യൽ ഇംഗ്ലീഷ് ഫോർ ലൈഫ് ആൻഡ് കരിയർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞു കൊണ്ട് വിട പറയുകയാണ് നിങ്ങൾ എന്നോടൊപ്പം കഴിഞ്ഞ 40 പാഠഭാഗങ്ങളോടൊപ്പം എട്ട് ആഴ്ചയായി ഉണ്ടായിരുന്നു ഇതൊരു നീണ്ട യാത്രയായിരുന്നു പക്ഷേ അതിന്റെ ആദ്യ റെക്കോർഡിങ് തുടങ്ങിയതുമുതൽ ഇന്നലെ വരെ വളരെ പെട്ടെന്ന് കടന്നു പോയത് പോലെ തോന്നുന്നു സമയം എങ്ങനെ പോയി എന്ന് അറിയില്ല പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും മാറ്റങ്ങളുണ്ടാകുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും അതിലൂടെ നിങ്ങൾക്ക് ഒരു സന്തോഷ പൂർണ്ണമായ വളരെ ആരോഗ്യ പൂർണമായ വളരെ സൌഹാർദ്ദപരമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ